മാഗ്നെറ്റിക് ഫീൽഡിന്റെ ആംപിയേഴ്സ് നിയമം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്റ്റെഡി കറന്റ് കാരണമുള്ള മാഗ്നെറ്റിക് ഫീൽഡിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ബയോട്ട് സാവേർട്ട് നിയമം എന്താണെന്ന് മനസിലാക്കുകയും ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ലഭിക്കുകയും ചെയ്തു ഇവിടെ j എന്നത് കറന്റ് ഡെൻസിറ്റി ആണ് ഇത് ഒരു വെക്റ്റർ അഥവാ സദിശമാണ് മാത്രമല്ല j da എന്നത് ആ പ്രതലത്തിൽ കൂടെയുള്ള കറന്റ് I ആയിരിക്കും അതായത് ഇതിന്റെ ദിശ കറന്റിന്റെ ദിശ തന്നെയായിരിക്കും അടുത്തതായി ഉയരുന്ന ചോദ്യം എങ്ങനെയാണ് നമ്മൾ എന്നീ ഇക്വേഷനുകൾ ഉപയോഗിച്ച് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നാണ് ഇതിനു സമാനമായി ഇലക്ട്രിക്ക് ഫീൽഡിൽ വരുന്ന ഇക്വേഷനുകൾ എന്നിവയാണ് ഇവിടെ എന്നത് ചാർജ് ഡെൻസിറ്റി ആണ് E എന്നത് എല്ലായിടത്തും സീറോ ആണെന്നതിൽ നിന്നും ഇലക്ട്രിക്ക് പൊട്ടൻഷ്യൽ V നെ നിർവചിക്കാൻ കഴിഞ്ഞു അതായത് എന്ന ഇക്വേഷൻ ഗോസ്സ് നിയമം എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ഗോസ്സ് നിയമത്തിന്റെ ഡിഫറെൻഷ്യൽ രൂപം എന്നോ പോയ്സൺസ് ഇക്വേഷൻ Poisson's equation എന്നോ അറിയപ്പെടുന്നു ചില സന്ദർഭങ്ങളിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇലക്ട്രിക്ക് ഫീൽഡ് കണ്ടുപിടിക്കാവുന്നതാണ് ഉദാഹരണമായി ഒരു പോയിന്റ് ചാർജ് അല്ലെങ്കിൽ ഒരു സമമായി ചാർജ് ചെയ്യപ്പെട്ട ഗോളം അതുമല്ലെങ്കിൽ സമമായി ചാർജ് ചെയ്യപ്പെട്ട ഒരു സിലിണ്ടർ ഇവയിലെ ഇലക്ട്രിക്ക് ഫീൽഡ് കാണാൻ നമുക്ക് ഗോസ്സ് നിയമം ഉപയോഗിക്കാം അപ്പോൾ ഉയർന്നുവരുന്ന ഒന്നാമത്തെ ചോദ്യം ഇലക്ട്രിക്ക് ഫീൽഡിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ഇവിടെയും നമുക്ക് മാഗ്നെറ്റിക് ഫീൽഡിലൂടെ മാഗ്നെറ്റിക് പൊട്ടൻഷ്യൽ നിർവചിക്കാൻ സാധിക്കുമോ എന്നാണ് മറ്റൊരു ചോദ്യം എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചില സമമിതിയുള്ള മാഗ്നെറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നാണ് ഇതിൽ ഒന്നാമത്തേത് അതായത് B യിൽ നിന്നും മാഗ്നെറ്റിക് പൊട്ടൻഷ്യൽ ലഭിക്കുന്ന വിധം നമുക്ക് പിന്നീട് നോക്കാം നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രശ്നം അതായത് B 0 j എന്ന ഇക്വേഷനിലൂടെ ചില സമമിതി പ്രശ്നങ്ങളിൽ മാഗ്നെറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം B 0 j എന്ന ഇക്വേഷന് ഒരു പേര് കൊടുക്കാം ആംപിയർ നിയമത്തിന്റെ ഡിഫറെൻഷ്യൽ രൂപം അഥവാ ഡിഫറെൻഷ്യൽ ഫോം ഓഫ് ആംപിയേഴ്സ് ലോdifferential form of Ampere's law അടുത്തതായി നമുക്കിതിന്റെ ഇന്റഗ്രൽ ഫോം എഴുതാം ഒരു സദിശ മണ്ഡലത്തിന് അഥവാ വെക്റ്റർ ഫീൽഡിനുള്ള സ്റ്റോക്സ് തിയറം ഓർമ്മയുണ്ടാകുമല്ലോ ഇവിടെ പ്രതലത്തിന് ചുറ്റുമായി രണ്ടറ്റവും തമ്മിൽ കൂടിച്ചേർന്ന വലയ രൂപത്തിലുള്ള പാത സങ്കല്പിച്ചാൽ ഈ അടഞ്ഞ പാതയിലൂടെ B dl എടുത്താൽ അതായത് സർക്യൂലർ ഇന്റഗ്രൽ എടുത്താൽ ഇന്റഗ്രേഷൻ അടഞ്ഞ പാതയിലൂടെ എന്ന് കാണിക്കാൻ ഇന്റെഗ്രേലിൽ ഒരു വട്ടം വരച്ചിട്ടുണ്ട് ds എന്നത് ഏരിയ യുടെ ഏറ്റവും ചെറിയ സൂക്ഷ്മ അംശമാണ് ഏരിയയുടെ ദിശ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് കാണാവുന്നതാണ് വലതുകൈയുടെ ചുരുട്ടിയ വിരലുകൾ dl ന്റെ ദിശയിലാണെങ്കിൽ തള്ള വിരൽ ഏരിയയുടെ ദിശയിലായിരിക്കും നേരത്തെ കിട്ടിയ ഇക്വേഷൻ മാറ്റി എഴുതുകയാണെങ്കിൽ നേരത്തെ കാണിച്ച സ്ലൈഡിൽ പറഞ്ഞതനുസരിച്ച് j ds എന്നത് കറന്റ് ആണ് അതായത് അപ്പോൾ നമുക്ക് ആംപിയേർസ് ലോ അനുസരിച്ച് ഒരു പ്രതലത്തിനെ ചുറ്റിയുള്ള അടഞ്ഞ പാത അഥവാ ഈ പ്രതലത്തിനെ ചുറ്റിയുള്ള ഒരു വലയം എടുത്താൽ ഈ വലയത്തിൽ കൂടിയുള്ള മാഗ്നെറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എന്നത് ഈ വലയത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പ്രതലത്തിൽ കൂടിയുള്ള ആകെ കറന്റിനെ അതായത് Ienclosed നെ 0 കൊണ്ട് ഗുണിച്ചതിനു തുല്യമായിരിക്കും അതായത് ഇത് ഗോസ്സ് നിയമത്തിന്റെ ഇന്റഗ്രൽ രൂപത്തിന് സമാനമാണ് അപ്പോൾ നമുക്ക് ഇത് ഒന്നുകൂടെ എഴുതാം ആംപിയേർസ് ലോ അനുസരിച്ച് ഇത് ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഗോസ്സ് നിയമത്തിനു സമാനമാണ് ഗോസ്സ് നിയമം അനുസരിച്ച് നമുക്കറിയാമല്ലോ ആണെന്ന് ഇതുപയോഗിച്ച് സമമിതിയിലുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് കാണുന്നതുപോലെ നമുക്ക് ആംപിയേർസ് ലോ ഉപയോഗിച്ച് സമമിതിയിലുള്ള മാഗ്നെറ്റിക് ഫീൽഡ് കാണാൻ സാധിക്കും ആദ്യം തന്നെ ഏറ്റവും ലളിതമായ ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം ഉദാഹരണം 1 നമുക്ക് കറന്റ് പ്രവഹിക്കുന്ന ഒരു നീണ്ട വയർ എടുക്കാം ഈ കറന്റ് കാരണമുള്ള മാഗ്നെറ്റിക് ഫീൽഡിന്റെ ദിശ ബയോട്ട് സാവേർട്ട് നിയമം അനുസരിച്ച് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് ഫീൽഡ് ഈ വയറിനു ചുറ്റും വാർത്തുളാകൃതിയിലായിരിക്കുമല്ലോ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഒന്നുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ മുകളിൽ നിന്നും നോക്കുമ്പോൾ കറന്റ് പേപ്പറിൽ നിന്നും പുറത്തേക്കുള്ള ദിശയിലാണെങ്കിൽ മാഗ്നെറ്റിക് ഫീൽഡ് ഇതുപോലെ ആന്റിക്ലോക്ക്വൈസ് അഥവാ അപ്രദിക്ഷിണമായിരിക്കും അതായത് ഫീൽഡ് ലൈനുകൾ വയറിനു ചുറ്റും ഇങ്ങനെ വാർത്തുളാകൃതിയിലുണ്ടാകും ഈ ഫീൽഡ് വയറിൽ നിന്നും ലംബമായുള്ള ദൂരം s നെ മാത്രമാണ് ആശ്രയിക്കുന്നത് അല്ലാതെ പോയിന്റ് വയറുമായി ഉണ്ടാക്കുന്ന ϕ യെ ആശ്രയിക്കുന്നില്ല അതായത് ഇവിടെ ഫീൽഡ് വയറിനു ചുറ്റും സിലിണ്ടറിക്കൽ സിമെട്രി അഥവാ സിലിണ്ടറിക്കൽ സമമിതിയിലായിരിക്കും അടുത്തതായി നമുക്ക് ഈ വൈദ്യുത വയർ കാരണമുള്ള ഫീൽഡ് എത്രയെന്നു കണ്ടുപിടിക്കാം നമ്മൾ ഇത് ഒന്നുകൂടെ വരയ്ക്കുകയാണ് ഇത് കറന്റ് I ഇവിടെ s ദൂരത്തിലുള്ള ഫീൽഡ് കണ്ടുപിടിക്കണം നമുക്കറിയാം ആംപിയേർസ് ലോ അനുസരിച്ച് B യുടെ അതെ ദിശയിൽ ഈ വൃത്തത്തിൽ കൂടി വളരെ സൂക്ഷ്മ അംശം dl എടുക്കാം ഇവിടെ B യുടെ അളവ് B എന്ന് എടുത്താൽ B B ϕ എന്നെഴുതാം ϕ എന്നത് ഫീൽഡിന്റെ ദിശയാണ് അതുപോലെ dl R dϕ ϕ എന്നും എടുക്കാം അപ്പോൾ അതായത് ഇത് സദിശരൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടെ വ്യക്തമാക്കട്ടെ നമ്മൾ ഇതിനു നേരെ വിപരീത ദിശയിൽ ചെയ്യുകയാണെങ്കിൽ അതായത് dl B ഇവ പ്രദക്ഷിണ ദിശയിൽ എടുത്താൽ കിട്ടുന്നത് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും കാരണം j ds ഇവ വിപരീത ദിശകളിലാണ് അപ്പോൾ ഞാനിവിടെ B ϕ ദിശയിലാണെന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ നെഗറ്റീവ് റിസൾട്ട് കിട്ടി അപ്പോൾ B യ്ക്ക് ശരിയായ ദിശ തന്നെ അതായത് ϕ ദിശ തന്നെ ലഭിച്ചിരിക്കുന്നു അപ്പോൾ സർഫേസ് ഏരിയ യ്ക്കും കറന്റിന്റെ ഒരു സൂക്ഷ്മ അംശത്തിനും ശരിയായ ദിശ എടുക്കുകയാണെങ്കിൽ ഫീൽഡിനും ശരിയായ ദിശ തന്നെ ലഭിക്കും ഉദാഹരണം 2 രണ്ടാമത്തെ ഉദാഹരണമായി ഞാൻ XY തലത്തിലുള്ള ഒരു ചാർജ് ചെയ്ത ഷീറ്റ് എടെടുക്കാം ഇതിലുള്ള സർഫേസ് കറന്റ് Y ദിശയിലാണെന്നിരിക്കട്ടെ ഇതിന്റെ കനം സീറോ എന്ന് എടുക്കാം ഇതിലുള്ള സർഫേസ് കറന്റ് K എന്നെടുക്കാം ഈ പ്രശ്നം വിശദമായി നോക്കുന്നതിനു മുൻപ് നമുക്ക് സർഫേസ് കറന്റ് എന്താണെന്ന് മനസിലാക്കാൻ അല്പസമയം വിനിയോഗിക്കാം ഇത് സീറോ കനത്തിലുള്ള ഒരു ഷീറ്റിൽ കൂടിയുള്ള കറന്റ് ആയതിനാൽ ഇവിടെ നമുക്ക് യൂണിറ്റ് ലെങ്ങ്തിലുള്ള കറന്റ് എന്നർത്ഥത്തിൽ എന്നെടുക്കാം K എന്നത് Y ദിശയിലായതിനാൽ നമുക്ക് ഇത് നമ്മൾ കറന്റ് ഡെൻസിറ്റി j യിലേക്കാക്കുകയാണെങ്കിൽ കാരണം ഷീറ്റ് XY തലത്തിലാണല്ലോ നമുക്ക് ഈ ഇക്വേഷൻ ശരിയാണോ എന്ന് നോക്കാം ഇവിടെ കറന്റ് ഇവിടെ ഏരിയ da യുടെ ദിശ XY തലത്തിന് കുറുകെയാണ് അതായത് Y ദിശയിലാണ് ഇതിന്റെ ഉയരം dz നീളം 1 യൂണിറ്റ് എന്നിരിക്കട്ടെ അപ്പോൾ അപ്പോൾ സർഫേസ് കറന്റിനുള്ള j എന്നത് ഒരു ഡെൽറ്റ ഫങ്ക്ഷൻ ആണ് ഡെൽറ്റ എന്നത് 1 z ആണ് അപ്പോൾ j എന്നത് യൂണിറ്റ് ഏരിയയിലുള്ള കറന്റ് ആകുന്നു K എന്നത് യൂണിറ്റ് ലെങ്ങ്തിലുള്ള സർഫേസ് ചാർജ് ആണ് ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ചാർജ് ഡെൻസിറ്റിയും സർഫേസ് ചാർജ് ഡെൻസിറ്റിയും പോലെ ആണ് അപ്പോൾ നമുക്കിവിടെ ചാർജ് ചെയ്ത ഒരു ഷീറ്റ് ഉണ്ട് X ദിശ ഞാനിവിടെ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഈ ലൈനിലൂടെയും Y ദിശ പ്രതലത്തിന് സമാന്തരമായി പേപ്പറിന്റെ ഉള്ളിലേക്കും x y അതായത് Z ദിശ പേപ്പറിൽനിന്നും മുകളിലേക്കുമാണെന്നിരിക്കട്ടെ ഇനി ഒരു ലൈൻ കറന്റ് കാരണമുള്ള ഫീൽഡ് കാണണമെന്നിരിക്കട്ടെ ഉദാഹരണമായി ഇവിടെയുള്ള ലൈൻ കറന്റ് കാരണം z ഉയരത്തിലുള്ള ഈ ബിന്ദുവിലെ ഫീൽഡ് കാണണമെന്നിരിക്കട്ടെ XY Z ആക്സിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ z ഉയരത്തിലുള്ള ഈ ബിന്ദുവിലെ ഫീൽഡ് ആണ് കാണുന്നത് കറന്റിന്റെ ദിശ Y യിലൂടെയാണ് അപ്പോൾ I യും ബിന്ദുവിലേക്കുള്ള വെക്ടറും തമ്മിലുള്ള ക്രോസ്സ് പ്രോഡക്റ്റ് എടുത്താൽ ലഭിക്കുന്ന ഫീൽഡിന്റെ ദിശ ബ്ലൂ നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഫീൽഡ് വർത്തുളാകൃതിയിലായിരിക്കുമല്ലോ ഞാനിവിടെ മറുവശത്ത് സമമിതിയിൽ മറ്റൊരു വൈദ്യുത വയർ കൂടി സങ്കല്പിക്കാം അപ്പോൾ ഇതുകാരണമുള്ള ഫീൽഡും വർത്തുളാകൃതിയിലായിരിക്കും അപ്പോൾ ഇവിടെ ഫീൽഡ് ഈ ദിശയിലായിരിക്കും അതായത് ഇവ രണ്ടിന്റെയും പരിണത ഫീൽഡ് X ആക്സിസിനു സമാന്തരമായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് x ദൂരത്തിലുള്ള വൈദ്യുത വയർ കാരണമുള്ള ഫീൽഡിന്റെ X കംപോണേന്റ് കണ്ട് തമ്മിൽ കൂട്ടുകയാണ് നമുക്കീ ചിത്രം ഒന്നുകൂടെ മാറ്റി വരക്കാം ഇതൊരു ഷീറ്റ് ആണ് ഞാനിവിടെ z ഉയരത്തിലുള്ള ഒരു ബിന്ദു സങ്കല്പിച്ചിരിക്കുന്നു നമ്മൾ എടുത്തിരിക്കുന്ന ലൈൻ കറന്റ് x ദൂരത്തിലാണ് ഇവിടെനിന്നും ബിന്ദുവിലേക്കുള്ള ദൂരം x 2 z 2 ആയിരിക്കും ഫീൽഡിന്റെ X കംപോണേന്റ് എടുക്കാം X ആക്സിസും കറന്റ് ലൈനിൽ നിന്നും ബിന്ദുവിലേക്കുള്ള ലൈനും തമ്മിലുള്ള ആംഗിൾ എന്നിരിക്കട്ടെ അങ്ങിനെയെങ്കിൽ ഫീൽഡിന്റെ ദിശയും X ആക്സിസും തമ്മിലുള്ള ആംഗിളും ആയിരിക്കും ഈ വളരെ ചെറിയ കറന്റ് ലൈൻ കാരണമുള്ള ഫീൽഡ് എത്രയെന്നു നോക്കാം ഇവിടെ കറുപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ചെറിയ കറന്റ് ലൈനിൽ ആകെ കറന്റ് I Kdx ആയിരിക്കും യൂണിറ്റ് ലെങ്ങ്തിലുള്ള കറന്റ് ആണ് K മാത്രമല്ല അപ്പോൾ ഫീൽഡിന്റെ X കംപോണേന്റ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആകെ ഫീൽഡ് x z എന്നെടുത്താൽ ഇവിടെ z 2 sec2 θ ഇവ ക്യാൻസൽ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇത്രയുമാണ് ഫീൽഡ് ഇത് X ദിശയിൽ അനുഭവപ്പെടുന്നു മറുവശത്തുള്ള ഫീൽഡ് അതായത് താഴെ വശത്തുള്ള ഫീൽഡ് കണ്ടുപിടിച്ചാൽ അത് നേരെ വിപരീത ദിശയിലായിരിക്കും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അപ്പോൾ z 0 ആകുമ്പോൾ ഫീൽഡ് X ദിശയിലും z 0 ആകുമ്പോൾ ഫീൽഡ് X ദിശയിലും ആയിരിക്കും ഇതേ ഇക്വേഷൻ നമുക്ക് ആംപിയേർസ് ലോ ഉപയോഗിച്ച് ചെയ്തുനോക്കാം ഈ ഷീറ്റിൽ കറന്റിന്റെ ദിശ കാണിച്ചിട്ടുണ്ട് മുകൾഭാഗത്തുള്ള ഫീൽഡിന്റെ ദിശ X ആക്സിസിന്റെ ദിശയിലാണെന്നും താഴെഭാഗത്ത് X ആക്സിസിന്റെ ദിശയിലാണെന്നും നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പോൾ സമമിതിയിലാണെന്നർത്ഥം അപ്പോൾ നമുക്കിവിടെ ഒരു ചതുരാകൃതിയിലുള്ള വലയം സങ്കല്പിക്കാം ഇതിന്റെ ഉയരം വളരെ ചെറുത് അതായത് ഏകദേശം z 0 എന്ന് സങ്കല്പിക്കാം വലയത്തിന്റെ നീളം a എന്നിരിക്കട്ടെ എന്നാൽ ഇത് വലയത്തിൽ അടങ്ങിയിരിക്കുന്ന കറന്റിന് തുല്യമാണ് അപ്പോൾ സർഫേസ് കറന്റ് K ആണെങ്കിൽ രണ്ടു ഇക്വേഷനും താരതമ്യം ചെയ്താൽ അതായത് അപ്പോൾ സമമിതി അഥവാ സിമെട്രിക് ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ ആംപിയേർസ് നിയമത്തിന്റെ ഇന്റഗ്രൽ രൂപം ഉപയോഗിച്ച് നമുക്ക് ഫീൽഡ് കണ്ടുപിടിക്കാവുന്നതാണ്